നമ്മൾ ഇനി അടുത്തതായി കൺകറൻസി പ്രോർട്ടോകോളിലുള്ള മറ്റു പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുവാൻ പോകുകയാണ് നമുക്ക് ലോക്കുകളിലേക്ക് തിരിച്ചു വരാം പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ തിരിച്ചു പോകുന്നത് മൾട്ടിബിൾ ഗ്രാനുലാരിറ്റിയിൽ ഉള്ള ലോക്കുകളിലേക്കാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം നമ്മൾ ലോക്കുകളെ കുറിച്ചു പഠിച്ചപ്പോൾ നമ്മൾ നോക്കിയത് വ്യത്യസ്തമായ പേരുകളിലുള്ള ഡേറ്റ ഐറ്റത്തിലുള്ള ലോക്കുകളെ കുറിച്ചാണ് പക്ഷേ ആ ഡേറ്റാ ഐറ്റം എന്തൊക്കെയാണ് എന്ന് നമ്മൾ നോക്കിയില്ല ഇനി സംഭവിക്കുന്നതിനെ കുറിച്ച് അറിയാൻ ഒരു ഉദാഹരണം എടുക്കാം ഒരു ടേബിൾ ഉണ്ട് എന്നു കരുതുക ആ മൊത്തം ടേബിളിനേയും നമുക്ക് ലോക്കു ചെയ്യണം ആ ടേബിളിനുള്ളിൽ റെക്കോഡുകൾ അല്ലെങ്കിൽ ട്യൂപിൾസ് ഉണ്ടാകും അതിനേയും ലോക്കുചെയ്യണം ഈ ട്യൂപിളുകൾക്കുള്ളിൽ ചിലപ്പോൾ ആട്രീബ്യൂട്ടുകൾ ഉണ്ടാകും അവയെ അനുവദിക്കണം അപ്പോൾ ലോക്കുകൾ നമ്മൾ ഒരുപാട് ഗ്രാനുലാരിറ്റിയിൽ ആണ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ലോക്ക് നമ്മൾ ആട്രീബ്യൂട്ടിൽ മാത്രം അല്ലെങ്കിൽ ടേബിളിനു മാത്രം അല്ലെങ്കിൽ റിക്കോടിനു മാത്രം അല്ലെങ്കിൽ മൊത്തം ഡേറ്റാ ബെയ്സിൽ മാത്രമായി കൊടുക്കുന്നു ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ട് അതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ മൾട്ടിബിൾ ഗ്രാനുലാരിറ്റിയുടെ ലോക്കുകളുടെ പ്രശ്നം നമുക്ക് നോക്കാം ഗ്രാനുലാരിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് തലത്തിൽ ആണ് ലോക്ക് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിനെയാണ് ഇവിടെ ഒരാൾ നോക്കുന്നത് ഹൈറാർക്കിയെ ആണ് ഡേറ്റാ ബെയ്സിന്റെ ഹൈറാർക്കി ഡേറ്റാ ബെയ്സിന് ഹൈറാർക്കി ഉണ്ട് പിന്നെ പല ടേബിളുകളും ഉണ്ട് അതിനകത്ത് ട്യൂപിളുകളും റെക്കോഡുകളും ഉണ്ട് അതിനകത്താണ് ആട്രീബ്യൂട്ടുകൾ വരുന്നത് ഇതാണ് ഹൈറാർക്കി ലോക്കുകളെ ഇതിന്റെ പല തലത്തിൽ കൊടുക്കുവാൻ സാധിക്കും അപ്പോൾ വ്യത്യസ്ത തലത്തിൽ ലോക്ക് ചെയ്യുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കും ഉദാഹരണത്തിന് ഒരു പ്രത്യേക ടേബിളിനെ നമ്മൾ ലോക്കു ചെയ്യുകയാണ് ഒരു പ്രത്യേക ടേബിളിനെ ലോക്ക് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് പുറമേ നമുക്ക് ആ ടേബിളിനെ ലോക്ക് ചെയ്താതായി തോന്നും എന്നാൽ യഥാർത്ഥത്തിൽ എല്ലാ ട്യൂപൂളുകളും പിന്നെ അതിനകത്തുള്ള ആട്രീബ്യൂട്ടുകളെയും ലോക്കു ചെയ്യുകയാണ് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടുള്ള പ്രശ്നം എന്താണ് അപ്പോൾ ടേബിളിനെ ലോക്കുചെയ്തു എന്നു കരുതുക ഇനി ട്യൂപൂളുകൾ ലോക്ക് ആയിട്ടില്ലാ എന്നുണ്ടെങ്കിൽ വേറെ ട്രാൻസാക്ഷനുകൾ ഇവിടെ വന്ന് ഈ ട്യൂപൂളുകളിൽ എഴുതുവാൻ സാധ്യത ഉണ്ട് അപ്പോൾ സമ്മറയ്സേഷനും കൈകാര്യം ചെയ്യുന്നതിനും സ്റ്റാറ്റസ്റ്റികിനും പ്രശ്നം വരുന്നു അതു കൊണ്ടാണ് അവയെ ലോക്കുചെയ്യണം എന്നു വരുന്നത് പക്ഷേ എക്സ്പ്ലിസിറ്റ് ആയി ഇവയെ ലോക്കുചെയ്യുന്നില്ല ഇവയെ ഇംപ്ളിസിറ്റ് മോഡിൽ ആണ് ലോക്ക് ചെയ്യുന്നത് അതിന്റെ അർത്ഥം ഇവിടെ രണ്ടു തരത്തിലുള്ള ലോക്കുകൾ ഉണ്ട് എന്നാണ് എക്സ്പ്ലിസിറ്റ് ലോക്കും ഇൻപിള്സിറ്റ് ലോക്കും അപ്പോൾ എന്തിനെയെങ്കിലും ലോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എക്സ്പിളിസിറ്റ് ആയിട്ട് അതിന്റെ അടിയിൽ ഉള്ള എല്ലാത്തിനെയും ഇമ്പ്ളിസിറ്റ് മോഡിൽ ലോക്ക് ചെയ്യുകയാണ് അപ്പോൾ ഗ്രാനുലർ ആയി എന്തിനെയെങ്കിലും ലോക്കു ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫൈൻ ഗ്രാനുലാരിറ്റി ആകാം അതിന്റെ അർത്ഥം ഹൈറാർക്കിയിൽ അത് താഴെയാണ് അതായത് ആട്രീബ്യൂട്ടുകൾ പോലുള്ളവയെ ലോക്കുചെയ്യുന്നു അതിന്റെ അർത്ഥം ഒരാൾക്ക് ഉയരത്തിലുള്ള കൺകറൻസിയേയും ഊഹിക്കുവാൻ സാധിക്കും കാരണം ഒരു ആട്രീബ്യൂട്ടിനെ ലോക്കു ചെയ്യുകയാണെങ്കിൽ ട്യൂപൂളുകളുടെ മറ്റ് ഭാഗങ്ങളിൽ പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കും മറ്റു ടേബിളുകളെയും ഉപയോഗിക്കുവാൻ സാധിക്കും അങ്ങനെ അങ്ങനെ പക്ഷേ ഇത് ഹയ് ലോക്കിങ് ഓവർഹെഡ് ആണ് കാരണം എല്ലാ ആട്രിബ്യൂട്ടുകളെയും ഇവിടെ ലോക്ക് ചെയ്യുന്നു അതേസമയം ഇത് കോഴ്സ് ഗ്രാനുലാരിറ്റി ആയിരുന്നെങ്കിൽ ടേബിളുകൾ പോലുള്ളവ ലോക്ക് ചെയ്യപ്പെടും അപ്പോൾ ഇത് കറൻസിയെ കുറയ്ക്കുന്നു പക്ഷേ ഓവർഹെഡ് കുറവാണ് എന്തായാലും ഇനി ഹൈറാർക്കിയുടെ ഒരു ഉദാഹരണം കാണിക്കാം ഇതിനെ ഡേറ്റാ ബെയ്സ് d എന്നു കരുതുക അതിനകത്ത് രണ്ടു ടേബിളുകളായി r1 ഉം r2 ഉം ഉണ്ട് r1 ന് അകത്ത് ട്യൂപുളുകളായ f1 ഉം f2 ഉം പിന്നെ r2 വിനകത്ത് f3 f4 f5 ഉം ഉണ്ട് f1 നകത്ത് ആട്രിബ്യൂട്ടായ a11 നും ഉണ്ട് ഇതാണ് ഇവിടെ നടക്കുന്നത് ഇനി ട്രാൻസാക്ഷനായ T 1 ന് ട്യൂപ്യൂളായ f നെ ലോക്കുചെയ്യണം അതുപോലെ T2 വിന് a 24നെ ലോക്കുചെയ്യണം ഇവിടെ എന്താണ് സംഭവിക്കുക ഇതിനെ അനുവദിക്കുവാൻ സാധിക്കുകയില്ല കാരണം f2 വിനെ എക്സ്പ്ലിസിറ്റ് ആയിട്ടാണ് ഇവിടെ ലോക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ ആട്രിബ്യൂട്ടായ a24 നെ ഇംപ്ലിസിറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു അപേക്ഷയെ അനുവദിക്കുവാൻ സാധിക്കുകയില്ല കാരണം ഇംപ്ലിസിറ്റായിട്ടാണ് a24നെ ലോക്ക് ചെയ്തിരിക്കുന്നത് അതിനു കാരണം എന്താണെന്നു വച്ചാൽ ഇത് f2 വിനെ ലോക്കുചെയ്തു കഴിഞ്ഞു അപ്പോൾ അതിന്റെ അടിയിൽ ഉള്ള എല്ലാം ലോക്കുചെയ്യപ്പെടും ഇനി T3 ക്ക് r1നെ ലോക്ക് ചെയ്യണം എന്നു കരുതുക അതിനെ അനുവദിക്കുവാൻ പറ്റുമോ ഇല്ല കാരണം T 3 R1 നെ ലോക്കു ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം T3 ഇതുമൊത്തം ലോക്കുചെയ്യുന്നു എന്നാണ് അപ്പോൾ T 3 ക്ക് R1 നെ ലോക്കുചെയ്യണം എന്നുണ്ടെങ്കിൽ അത് അനുവദിക്കുവാൻ സാധിക്കുകയില്ല കാരണം T 3 R1 നെ ലോക്കു ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം T3 ഇതു മുഴുവൻ ലോക്കുചെയ്യുന്നു എന്നാണ് അങ്ങനെ വരുമ്പോൾ f2 വിലുള്ള ലോക്കും T 1 മായി സംഘർഷ ഉണ്ടാകാം ഇത് സമ്മതിക്കുവാൻ പറ്റില്ല അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നു വച്ചാൽ f2 വിനെ ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഡിസന്റൻസ് എല്ലാം ലോക്ക് ആകും അതു പോലെ തന്നെ ഡേറ്റാ ബെയ്സ് വരെയുള്ള അസ്സന്റെന്റ്സിനെ ആരേയും നമുക്ക് ലോക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ സബ് ട്രീയിലുള്ള ഡിസന്റ്ന്റെകളെയും ലോക്കുചെയ്യുവാൻ സാധിക്കുകയില്ല ഇതാണ് ഇംപളിസിറ്റ് ലോക്കിനെ കുറിച്ചുള്ള കാര്യം r1 നെ അപ്പോൾ ലോക്ക് ചെയ്യാൻ പറ്റില്ല r1 ൽ ഇംപ്ലിസിറ്റ് ലോക്കും ഇല്ല r1 നെ ലോക്ക് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് ഇംപ്ലിസിറ്റ് ആയിട്ട് f2 നെ ലോക്ക് ചെയ്യുന്നു എന്നാണ് അങ്ങനെ വരുമ്പോൾ അത് T1 ൻറെ എക്സ്പ്ലിസിറ്റ് ലോക്കുമായി സംഘർഷം ഉണ്ടാക്കുന്നു അതുകൊണ്ടാണ് ഇത് അനുവദിക്കാത്തത് ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായി കാണാം ഇത് ഫലപ്രദമല്ല എന്ന് ഇനി ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം ഇവിടെ ഇന്റൻഷൻ ലോക്ക് മോഡ് ഉപയോഗിക്കുന്നുണ്ട് അതിനെ കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് അത് എന്താണ് f2 നെ ലോക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻറെ അസെൻഡന്റുകൾ എല്ലാവരും ഇന്റൻഷൻ ലോക്ക് മോഡിൽ ആകും ഇന്റൻഷൻ മോഡിലെ അസെൻഡന്റുകൾ എന്താണ് അതിൽ ഇംപ്ലിസിറ്റ് ലോക്ക് ഇല്ല പകരം ഇന്റൻഷൻ മോഡ് ലോക്ക് ആണ് അതാണ് ഇന്റൻഷൻ മോഡ് നമ്മൾ നേരത്തെ ഷെയേഡ് ലോക്കായ S നെ കുറിച്ചും എക്സ്ക്ലൂസീവ് ലോക്ക് ആയ X നെ കുറിച്ചു പഠിച്ചിരുന്നു അത് റീഡിനും റൈറ്റിനും വേണ്ടിയായിരുന്നു പഠിച്ചത് നിങ്ങൾക്ക് ഓർമയുണ്ടെങ്കിൽ അവിടെ ഒരു ലോക്ക് മെട്രിക്സ് ഉം ഉണ്ടായിരുന്നു ഇന്റൻഷൻ ലോക്ക് മോഡ് 3 ലോക്കുകളെ കൂടി തരുന്നുണ്ട് ആദ്യത്തെത് ഇന്റൻഷൻ ഷെയേഡ് ലോക്ക് അതിനെ നമ്മൾ IS ലോക്ക് എന്ന് പറയുന്നു ഇനി എന്താണ് ഇന്റൻഷൻ ഷെയേഡ് ലോക്ക് ഡിസ്സന്റൻസിൽ ഒന്നിനെങ്കിലും S ലോക്ക് വേണം അപ്പോൾ അതിനെ ഇന്റൻഷൻ ഷെയേഡ് ലോക്ക് എന്നു പറയാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഉദാഹരണത്തിന് ഇതിനെ S മോഡിൽ ലോക്കുചെയ്തിരിക്കുന്നു എന്നു കരുതുക അങ്ങനെയാണെങ്കിൽ r2 IS മോഡിൽ ആയിരിക്കും കാരണം അതിന്റെ ഒരു ഡിസ്സന്റൻന്റ് എങ്കിലും S ലോക്കിൽ ആയിരിക്കണം ഇതിനായിട്ടാണ് നമ്മൾ ഇന്റൻഷൻ ലോക്ക് മോഡ് ഉപയോഗിക്കുന്നത് IS പോലെ തന്നെ IX ഉണ്ട് അത് ഇന്റൻഷൻ എക്സ്ക്ളൂസിവ് ലോക്കു മോഡ് ആണ് ഇതിന്റെ വിവരണവും നേരത്തെയുള്ളതു പോലെയാണ് ഏതെങ്കിലും ഒരു ഡിസന്റന്റിനെങ്കിലും X ലോക്ക് ഉണ്ടാകണം അതുകൊണ്ടാണ് ഇതിനെ ഇന്റൻസീവ് എക്സ്കൂളൂസിവ് എന്ന് വിളിക്കുന്നത് കാരണം ഇത് പൂർണമായും എക്സ്കൂള്യൂസീവ് മോഡ് അല്ല പക്ഷെ എക്സ്ക്ളൂസീവ് മോഡിന്റെ ഒരു ഇന്റൻന്റ് ആണ് കാരണം ചില ഡിസന്റൻന്റ്കൾക്ക് X ലോക്ക് ഉണ്ട് ഇതിനെ നമുക്ക് ഉദാഹരണത്തിലൂടെ കുറച്ചു കൂടി വ്യക്തമായി മനസ്സിലാക്കാം ഇവിടെ X മോഡ് ഉണ്ട് എന്നു കരുതുക ഇത് IX മോഡ് വളരെ പ്രധാനമായ മറ്റൊരു കാര്യം എന്തെന്നാൽ അഞ്ചാമത്തെ ഒരു ലോക്ക് കൂടെയുണ്ട് അതിൽ ഷെയർഡും ഇന്റൻഷൻ എക്സ്ക്ലൂസീവ് ലോക്കും ഉണ്ട് അതുകൊണ്ട് അതിനെ SIX എന്ന് വിളിക്കുന്നു ഇത് ഒരു പ്രശസ്തമായ ലോക്ക് ആണ് ഇത് എന്താണ് എന്ന് വെച്ചാൽ നോഡിനെ S മോഡിൽ ലോക്ക് ചെയ്തിരിക്കുകയാണ് പിന്നെ ഒരു ഡിസൻഡന്റിന് എങ്കിലും X നോഡ് ഉണ്ട് ഇതാണ് ഷെയർഡ് ലോക്ക് ഇത് X ലോക്ക് അപ്പോൾ ഇതാണ് ഷെയർഡ് ഇൻന്റെൻസീവ് ലോക്ക് ഷെയർഡ് ഇൻന്റെൻസീവ് ലോക്ക് കുറച്ച് സങ്കീർണ്ണമാണ് നമുക്ക് അതിലേക്ക് വരാം അതിനു മുമ്പ് നമുക്ക് ലോക്കിങ്ങിന്റെ നിയമങ്ങളെ കുറിച്ചു നോക്കാം നമ്മുടെ കൈയിൽ 5 ലോക്കുകൾ ഉണ്ട് അപ്പോൾ അതിനു വേണ്ടി നിയമങ്ങൾ ആവശ്യമാണ് ആദ്യത്തെ നിയമം യഥാർത്ഥത്തിൽ വളരെ എളുപ്പമാണ് അതായത് ഒരു ട്രാൻസാക്ഷന് ഒരു സമയം ഒരു ലോക്കേ കിട്ടുകയുള്ളു അതിന്റെ അർത്ഥം ഒരു ട്രാൻസാക്ഷന് ഒരു ഡേറ്റാ ഐറ്റത്തിൽ ലോക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു ലോക്കുമാത്രമെ കിട്ടുകയുള്ളു രണ്ട് ലോക്കുകൾ കിട്ടുകയില്ല ഉദാഹരണത്തിന് അതിന് S ലോക്കും X ലോക്ക് ഉം കൂടി കിട്ടുകയില്ല ഇനി ചോദ്യം എന്തെന്നാൽ ഇതിൽ ഏത് ലോക്കായിരിക്കും അതിന് കിട്ടുക അതിന് ഏറ്റവും വലിയ പരിമിതപ്പെടുത്തുന്ന ലോക്കായിരിക്കും കിട്ടുക അപ്പോൾ അതിന് ഒരു ലോക്കേ കിട്ടുകയുള്ളു അത് ഏറ്റവും കൂടുതൽ റെസ്ട്രിക്റ്റഡ് ലോക്ക് ആയിരിക്കും ഇനി അതിന് രണ്ട് ലോക്കുകളും അതായത് ട ഉം X ഉം കിട്ടണമെന്ന് ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ റെസ്ട്രിക്റ്റഡ് ആയിരിക്കണം കിട്ടേണ്ടത് അതിന്റെ അർത്ഥം അതിന് X ആയിരിക്കണം കിട്ടേണ്ടത് പിന്നെ എല്ലാ ലോക്കുകൾക്കും എല്ലാ താഴ്ന്ന തലത്തിലുള്ള ലോക്കുകളെ കുറിച്ചുള്ള അറിവ് കൊടുത്തിരിക്കണം അതിന്റെ അർത്ഥം എപ്പോഴെക്കെയാണ് ഒരു ട്രാൻസാക്ഷൻ ഡേറ്റ ഐറ്റത്തെ ലോക്കുചെയ്യുന്നത് ആ സമയത്ത് അതിന്റെ അസ്സൻഡൻറ്റുകൾക്ക് എല്ലാവർക്കും ഈ അറിവ് അയച്ചു കൊടുക്കും അപ്പോൾ ഡിസന്റന്റുകൾക്ക് എന്തു സംഭവിച്ചു എന്ന് അസന്റാന്റുകൾക്ക് അറിയുവാൻ സാധിക്കും അല്ലെങ്കിൽ ഇതിനെ ഇന്റൻഷൻ ലോക്കു മോഡ് എന്ന് പറയുവാൻ സാധിക്കുകയില്ല അപ്പോൾ ലോക്കുകൾക്ക് വേരു തൊട്ട് ഇല വരെ എന്ന ക്രമം കിട്ടുകയാണ് മുകളിൽ നിന്നും താഴോട്ട് എന്ന് വരുമ്പോൾ ലോക്കുകളെ റിലീസ് ചെയ്യുന്നത് ഇലതൊട്ട് വേരു വരെ എന്ന ക്രമത്തിലാണ് കുറച്ച് അലോചിച്ചാൽ നിങ്ങൾക്ക് ഇത് എന്തുകൊണ്ടാണ് ആവശ്യം എന്നു മനസ്സിലാകും ലോക്കുകൾ റിലീസു ചെയ്യുന്നതിന് മുൻപ് തന്നെ വേറെ ട്രാൻസാക്ഷനുകൾ വന്ന് മറ്റു ലോക്കുകൾ എടുക്കും ഇങ്ങനെയുള്ള കേസുകളിൽ സംഘർഷം വരുന്നില്ല ലോക്കുകൾ കിട്ടുന്നത് വേരു തൊട്ട് ഇല വരെ എന്ന ക്രമത്തിലാണ് ഏറ്റവും ഉയരത്തിലുള്ള ലോക്കു വേണ്ടതിനാണ് ആദ്യം കിട്ടുന്നത് അതായത് അതിന്റെ അടിയിൽ ഉള്ള എല്ലാവരും ലോക്കുചെയ്യപ്പെടണം അതിനു ശേഷം അതിനു താഴെ ഉള്ള തലത്തിൽ ഉള്ളവക്ക് ലോക്കുകിട്ടുന്നു അങ്ങനെ അങ്ങനെ അതേ സമയം ഇതിനെ റിലീസ് ചെയ്യുമ്പോൾ തിരിച്ച് ഉള്ള ക്രമത്തിലാണ് വരുന്നത് അല്ലെങ്കിൽ എന്തു സംഭവിക്കും ഉദാഹരണത്തിന് ഉയരത്തിലുള്ള ഇലയെ നമ്മൾ റിലീസ് ചെയ്യുകയാണ് അപ്പോൾ ആ ഉയരത്തിൽ ഉള്ള ഇലയെ പരിശോധിക്കുന്നവർ വിചാരിക്കും അതിനു താഴെ ഉള്ളവ എല്ലാം ലോക്ക്ഡ് അല്ലാ എന്ന് അതു തെറ്റാണ് അപ്പോൾ ഇത് ഇലതൊട്ട് വേരു വരെ എന്ന ക്രമത്തിലാണ് റിലീസ് ചെയ്യപ്പെടുന്നത് ഇതാണ് ലോക്കിങ്ങിന്റെ നിയമങ്ങൾ നമ്മൾ വിട്ടു പോയത് എതാണെന്ന് വച്ചാൽ ആക്ച്വൽ ലോക്കിങ്ങ് മെടിക്സ് ആണ് ഇപ്പോൾ നമ്മുടെ കൈയിൽ 5 തരത്തിലുള്ള ലോക്കുകൾ ആണ് ഉള്ളത് ലോക്ക് കോംപാറ്റിബിലിറ്റി മെട്രിക്സ് ഇവയെ എല്ലാ പേരേയും നോക്കണം ഇതാണ് ഈ അഞ്ചു തരത്തിലുളള ലോക്കുകളുടെ ലോക്ക് കോംപാറ്റിബിലിറ്റി മെടിക്സ് ഞാൻ ലോക്ക് കോംപാറ്റിബിലിറ്റി മെട്രിക്സിനെ വരക്കുവാൻ പോകുകയാണ് താഴെ പറയുന്നവയാണ് ലോക്കുകൾ അതായത് IS ലോക്ക് IX ലോക്ക് ട ലോക്ക് SIX ലോക്ക് പിന്നെ X ലോക്ക് അപ്പോൾ ഈ റോകളിലും ഇതേ കാര്യം തന്നെയാണ് വരുന്നത് IS IX S SIX X എനിക്ക് ഇവിടെ എഴുതാൻ ആവശ്യമായതിൻറെ കാരണങ്ങൾ എന്നത് ഏറ്റവും കുറവ് പരിമിതം ഉള്ളതു തൊട്ട് ഏറ്റവും കൂടുതൽ പരിമിതമായത് വരെ ആണ് നമ്മൾക്ക് ആദ്യം ലോക്ക് കോംപാക്ടിബിലിറ്റി മെട്രിക്സ് പൂർത്തിയാക്കാം അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്തിനാണ് ഇത് ഇവിടെ പറഞ്ഞതെന്നും ഇത് എന്താണെന്ന് എന്ന് അപ്പോൾ ഇതാണ് S അതായത് ഇപ്പോൾ ഒരു ട്രാൻസാക്ഷനിനു IS ലോക്ക് ഒരു ഡേറ്റ ഐറ്റത്തിന് ആയിട്ട് കിട്ടിയാൽ മറ്റൊരു ട്രാന്സാക്ഷനിന് ഇതേ ഡേറ്റ ഐറ്റത്തിന് ആയിട്ട് ലോക്ക് കിട്ടും ഇതിൽ y ഉണ്ട് അതായത് IS സും IX ഉം തമ്മിൽ സംഘർഷമുണ്ടാകുകയില്ല IS സും IS സും തമ്മിൽ സംഘർഷമുണ്ടാകുകയില്ല IS സും SIX ഉം തമ്മിൽ സംഘർഷമുണ്ടാകുകയില്ല അതേ സമയം IS സും X ഉം തമ്മിൽ സംഘർഷമുണ്ടാകും അതായത് ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഒരു ഡേറ്റാ ഐറ്റത്തിന്റെ ഇൻന്റൺഷൻ ഷെയേഡ് ലോക്ക് കൈവശപ്പെടുത്തുന്നു എങ്കിൽ മറ്റൊരു ട്രാൻസാക്ഷന് അതിന്റെ X ലോക്ക് കിട്ടില്ല അത് വളരെ പ്രധാനമാണ് ഇനി നമുക്ക് തുടരാം IX തൊട്ട് IS വരെ എസ്സ് ആണ് വരുന്നത് നമ്മൾ അത് നേരത്തെ കണ്ടു ഇനി IX തൊട്ട് IX വരുമ്പോൾ അവിടെയും എസ്സ് ആണ് വരുക ഇനി രണ്ട് ട്രാൻസാക്ഷനുകൾക്കും ഒരു IX ലോക്കിനെ കൈവശപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അതിന്റെ അർത്ഥം ഏതെങ്കിലും ഒരു ഡിസന്റന്റ് X ൽ ആയിരിക്കും രണ്ട് കാര്യങ്ങൾക്ക് ഏത് ഡിസന്റന്റ് ആണ് എന്നുളളതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം അല്ലാത്ത പക്ഷം ഇവിടെ പ്രശ്നങ്ങൾ ഒന്നും വരുന്നില്ല IX മുതൽ S വരെ നോ എന്നാണ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു ഡിസന്റന്റിന് എക്സ്ക്ലൂസീവ് മോഡ് ആണ് ഉള്ളത് എങ്കിൽ ആർക്കും ആ ഒരു നോഡിൽ ഷെയേഡ് ലോക്ക് കിട്ടുകയില്ല ഇത് എന്തു കൊണ്ടാണ് പ്രശ്നമാകുന്നത് ഒരു ഷെയേഡ് ലോക്ക് എല്ലാത്തിലും എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഒരു മൊത്തം ടേബിളിനെ വായിക്കുക എന്നാണ് പിന്നെ IX എന്ന് ഉദ്ദേശിക്കുന്നത് എഴുതുവാൻ വച്ചിരിക്കുന്നതിനകത്ത് എന്തോ ലോക്കുചെയതിരിക്കുന്നു എന്നാണ് അത് എന്താണ് എന്നു വച്ചാൽ വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മറി എല്ലാം തെറ്റായിരിക്കും അതു കൊണ്ട് ആണ് അത് അനുവദിക്കാത്തത് ഇനി ഐ x തൊട്ട് SIX വരെയുള്ളത് അനുവദിക്കുകയില്ല അതുപോലെ തന്നെ ഐ x തൊട്ട് x ഉം അനുവദിക്കുകയില്ല അടുത്തത് വരുന്നത് S ലോക്കാണ് അത് ഷെയേഡ് ലോക്കാണ് ഇനി ഷെയേഡ് തൊട്ട് IS വരെയുള്ളത് y ആണ് അവിടെ പ്രശ്നം വരുന്നില്ല ഷെയേഡ് തൊട്ട് IX വരെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു അവിടെ നോ ആണ് വരുന്നത് അതിനു ശേഷം ഷെയേഡ് തൊട്ട് ഷെയേഡ് വരെ എസ്സ് ആണ് വരുക അവർക്ക് രണ്ടു പേർക്കും ഷെയെഡ് ലോക്ക് കിട്ടും പ്രശ്നം വരുന്നില്ല പക്ഷേ ഈ SIX ലോക്കിന് X ലോക്കിനകത്ത് വരുവാൻ പറ്റുകയില്ല അപ്പോൾ X ന് ഇവിടെ നോ എന്നാണ് വരുന്നത് അതിനുശേഷം SIX ലോക്ക് ഇവിടെ എസ്സ് എന്നാണ് വരുന്നത് ഇനി IX ഉം SIX ലോക്കും തമ്മിൽ പങ്കുവയ്പ് നടക്കില്ല SIX നെ S മായിട്ടും പങ്കു വയ്ക്കുവാൻ പറ്റില്ല SIX ലോക്കിനെ SIX ലോക്കുമായിട്ടും പങ്കു വയ്ക്കുവാൻ പറ്റുകയില്ല പിന്നെ ഒന്നിനും X ഉം ആയി പങ്കു വയ്ക്കുവാൻ പറ്റുകയില്ല ഇനി നിങ്ങൾ മെട്രിക്സ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് സിമെട്രിക്സ് ആണ് അങ്ങനെയാകണം കാരണം ഏത് ട്രാൻസാക്ഷനാണ് റോയിലും കോളത്തിലും എന്നുള്ളത് ഇവിടെ പ്രശ്നമാകുന്നില്ല പക്ഷെ ഇതാണ് കാര്യങ്ങൾ ഇവിടെ രണ്ടു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഉണ്ട് X ലോക്കിനെ വേറെ ഒന്നുമായും പങ്കു വയ്ക്കുവാൻ പറ്റുകയില്ല ഇനി ഏതെങ്കിലും ഒന്നിനെ എഴുതുവാൻ വേണ്ടി എക്സ്ക്ലൂസീവ് ലോക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അത് എഴുതുവാൻ ഉള്ളവയാണ് എന്നാണ് അതായത് അതിനെ മറ്റൊന്നുമായും പങ്കുവയ്ക്കുവാൻ പറ്റുകയില്ല ഇനി ഏതെങ്കിലും ഒന്ന് എക്സ്കുളൂസീവ് ആയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇൻന്റൻഷണൽ ആയിട്ട് ലോക്ക് കൊടുത്തിരിക്കുകയാണെങ്കിൽ എന്തു സംഭവിക്കും ഈ ഷെയേഡ് ലോക്കിന്റെ ഇന്റൻഷൻ മോഡ് എന്നുവച്ചാൽ ഇതിനു താഴെ ഉള്ളവയെ വായിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇനി അതിനെ വായിച്ചില്ല എങ്കിലും അതിനെ മറ്റുള്ള ലോക്കുകളുമായി പങ്കു വയ്ക്കുവാൻ സാധിക്കും X ലോക്ക് ഒഴിച്ച് കാരണം അതിനകത്ത് ഉള്ളവയെ എഴുതേണ്ടിവരും അത് സാധിക്കുകയില്ല ഇതാണ് ലോക്ക് കോംപാറ്റിബിലിറ്റി മെട്രിക്സ് അത് ആലോചിച്ച് വച്ചാൽ മാത്രമെ ഇത് മനസ്സിലാക്കുവാൻ സാധിക്കൂ സാധാരണയായി SIX ലോക്ക് ഒഴിച്ച് ബാക്കി എല്ലാം എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോൾ എന്താണ് SIX ലോക്ക് അത് കുറച്ചു കൂടി ആകർഷകമാണ് ഇനി നമ്മൾക്ക് ഈ SIX ലോക്കിനെ കുറിച്ച് കൂടുതൽ നോക്കാം ഇനി ഈ SIX ലോക്ക് എന്താണ് ചെയ്യുന്നത് അത് എന്തിനാണ് ആവശ്യം ഉദാഹരണത്തിന് ഇവിടെ ഒരു ട്രാൻസാക്ഷൻ T1 ഉണ്ട് എന്ന് കരുതുക അതിന് r1 നെ വായിക്കണം ഇത് r1 നെ വായിക്കുന്നു പക്ഷേ ഇതിന് a24 നെ എഴുതണം ഈ a24 f2 ൻറെ അടിയിൽ ആണ് ഉള്ളത് അപ്പോൾ ട്രാൻസാക്ഷൻ T 1 ന് r1 നെ വായിച്ചിട്ട് a24 ൽ എഴുതണം അങ്ങനെ ചെയ്താൽ ഏതു മോഡിൽ ആണ് r1നെ ലോക്കുചെയ്യുവാൻ പറ്റുക നമുക്ക് r1 നെ IX മോഡിൽ ആണ് ലോക്കുചെയ്യുന്നത് എന്ന് കരുതാം അതാണ് ആദ്യത്തെ കാര്യം അതിന്റെ അർത്ഥം എന്നു വച്ചാൽ ഇവിടെ X നടക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ IX മോഡ് വരും ഇനി ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നു വച്ചാൽ വേറെ ഏതെങ്കിലും ട്രാൻസാക്ഷനിൽ അതിനെ ലോക്കുചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് IX മോഡ് കിട്ടും ഇനി നമ്മൾക്ക് IS തൊട്ട് IX വരെ y ആണ് എന്നുള്ളത് നോക്കാം അതിന്റെ അർത്ഥം എന്താണ് എന്ന് വച്ചാൽ വേറെ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷന് r1 നെ IX മോഡിൽ ലോക്കു ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് അനുവദിക്കും അതിന്റെ അർത്ഥം വെറെ ഏതെങ്കിലും ട്രാൻസാക്ഷനിനും r1 നെ IX മോഡിൽ ലോക്കുചെയ്യാവുന്നതാണ് പക്ഷേ ഇത് സുരക്ഷിതമല്ല കാരണം വേറെ ഏതെങ്കിലും ട്രാൻസാക്ഷൻ ഇതിനെ ലോക്കുചെയ്യുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും ട്രാൻസാക്ഷൻ യഥാർത്ഥത്തിൽ a21 ൽ വ്യത്യാസംവരുത്തും അത് സുരക്ഷിതമല്ല കാരണം T 1 മൊത്തം r 1 നെ വായിക്കേണ്ടതാണ് അപ്പോൾ അതിന്റെ അർത്ഥം ഇത് സുരക്ഷിതമല്ല എന്നാണ് ഇവിടെയാണ് പ്രശ്നം വരുന്നത് അപ്പോൾ അത് IX മോഡ് അനുവദിക്കരുത് അതാണ് ഇതിലെ ആദ്യ ഭാഗം ഇനി ഇത് ട മോഡിൽ മാത്രമായി ലോക്കുചെയ്യുകയാണെങ്കിൽ എന്തു സംഭവിക്കും നമുക്ക് ഇതേ ഉദാഹരണം എടുക്കാം ഈ ഉദാഹരണത്തെ ഞാൻ വീണ്ടും ഇവിടെ വയ്ക്കുകയാണ് ഇത് r1 ഇത് f2 ഇത് a24 ഇനി ട മോഡിൽ മാത്രം ഇത് ലോക്ക് ആകുകയാണെങ്കിൽ എന്തു സംഭവിക്കും കാരണം ഇത് എഴുതുക മാത്രമാണ് ചെയ്തു കൊണ്ടിരിക്കുന്നത് മറ്റു ട്രാൻസാക്ഷനുകൾ ഇവിടെ വരാം എന്നിട്ട് ഇതിനെ ട മോഡിൽ ലോക്കുചെയ്യാം കാരണം ഇത് വായിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതിൻറെ അർത്ഥം ഇത് S മോഡിലാണ് ലോക്ക് ചെയ്യുന്നത് എങ്കിൽ വേറെ ഏതെങ്കിലും ട്രാൻസാക്ഷൻ വന്നു ഇതിനെ S മോഡിൽ ലോക്ക് ചെയ്യാം കാരണം S തൊട്ട് S വരെ അനുവദനീയമാണ് അതിൻറെ അർത്ഥം ഇവിടെ X ഉണ്ടെങ്കിലും മറ്റ് ട്രാൻസാക്ഷനുകൾ ഈ മൊത്തം കാര്യങ്ങളും വായിക്കാൻ വരുമ്പോൾ അവർക്ക് പ്രശ്നമുണ്ടാകും കാരണം ഇതിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അപ്പോൾ S ലോക്കിനെ അനുവദിക്കാൻ സാധിക്കില്ല അപ്പോൾ IX മോഡും s മോഡും അനുവദിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ഒത്തുതീർപ്പിനായി പുതിയ മോഡിനെ കണ്ടുപിടിക്കുകയും ഡിസൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിനെ ആണ് SIX മോഡ് എന്ന് വിളിക്കുന്നത് അത് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് IX ഉം S ഉം ആണെന്നാണ് അതിൻറെ അർത്ഥം ഈ ട്രാൻസാക്ഷൻ ഇതിനെ പൂർണ്ണമായും വായിക്കുന്നു എന്നാണ് അതുകൊണ്ടാണ് ഇത് S ആകുന്നത് പക്ഷേ അതിന് അകത്തു ഉള്ളവയെ എഴുതുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇത് IX ഉം ആകുന്നു അതുകൊണ്ടാണ് ഇത് SIX മോഡ് ആകുന്നത് അപ്പോൾ ഇത് ഇത് IX ഉം S ഉം തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പ് ആണ് ഈ SIX മോഡ് S മോഡിനെകാളും IX മോഡിനെകാളും തികച്ചും സുരക്ഷിതവും വേഗതയും ഉള്ളവ ആകുന്നു അപ്പോൾ ഇതാണ് കാര്യം നമ്മൾക്ക് ഇനി കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം ഉദാഹരണത്തിന് T1 ന് a12 വായിക്കണം അപ്പോൾ ഇത് ഇവിടെ എന്താണ് ഇനി കൊടുക്കുന്നത് ഇവിടെ S മോഡ് കൊടുക്കുകയാണ് പിന്നെ IS മോഡ് ഇതാണ് IS മോഡ് ഈ ആദ്യത്തെ ഉദാഹരണം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും രണ്ടാമത്തെ ഉദാഹരണം ആയിട്ട് T2 നു a14 നെ എഴുതണം അങ്ങനെ വരുമ്പോൾ അത് X മോഡിൽ ഇതിനെ ലോക്ക് ചെയ്യും അപ്പോൾ ഇത് IX മോഡ് ആണ് ഇനി മൂന്നാമത്തെ ഉദാഹരണത്തിൽ ട്രാൻസാക്ഷൻ T3 യ്ക്ക് f1 നെ വായിക്കണം അപ്പോൾ അത് ചെയ്യുന്നത് എന്തെന്നാൽ അത് f1 നെ S മോഡിൽ ലോക്ക് ചെയ്യും അതിനുശേഷം r1 IS മോഡിൽ ആകും ഇതും വളരെ എളുപ്പമാണ് ഇനി നാലാമത്തെ ഉദാഹരണത്തിൽ T4 ന് മുഴുവൻ ഡേറ്റാബേസിനെയും വായിക്കണം അപ്പോൾ d യെ വായിക്കുന്നു അപ്പോൾ ഇത് ചെയ്യുന്ന ഒരേയൊരു കാര്യം എന്തെന്നാൽ d യെ മോഡിൽ ലോക്ക് ചെയ്യുന്നു അപ്പോൾ ഇതാണ് ആ 4 ലോക്കുകൾ ഇനി കൺകറന്റ് ആയിട്ട് പോകുന്ന ട്രാൻസാക്ഷനുകളെ പഠിക്കുവാൻ വേണ്ടി നമ്മൾക്ക് ഉദാഹരണങ്ങൾ ഉപയോഗിക്കാം T1നേയും T2 വിനേയും കൺകറന്റായിട്ടാണ് എക്സ്സിക്യൂട്ട് ചെയ്യുന്നത് T1 ന് a12 നെ വായിക്കണം T2 വിന് a14 നെ എഴുതണം അവക്ക് കൺകറന്റ് ആയി പോകുവാൻ പറ്റുമോ അവക്ക് പറ്റും കാരണം ഇവിടെ പ്രശ്നം വരുന്നില്ല അത് എന്തെന്നാൽ ഇത് ട ആണ് ഇത് X ആണ് അവ രണ്ടു വ്യത്യസ്തമായ കാര്യങ്ങളിൽ ആണ് വരുന്നത് അപ്പോൾ ഇത് IS ഇത് IX നമ്മൾ നേരത്തെയുള്ള കോംപാറ്റിബിലിറ്റി മെട്രിക്സിലോട്ട് പോയാൽ IX ഉം IS ഉം കോംപാറ്റിബിൾ ആണ് എന്നു കാണാം അപ്പോൾ ഇവയിൽ ഒരു പ്രശ്നവും വരുന്നില്ല T 1 നും T 2 വിനും കൺകറൻറ്റ് ആയി പോകുവാൻ സാധിക്കും ഇനി നമുക്ക് മറ്റൊരു ഓപ്പറേഷൻ നോക്കാം T1 T3 പിന്നെ T4 T1 SIS മോഡിൽ ആണ് T3 S മോഡിൽ ആണ് ഇവ എല്ലാം IS മോഡിൽ ആണ് ഇത് ട മോഡിൽ ആണ് അപ്പോൾ ഇവക്ക് മുന്നോട്ടു പോകുവാൻ പറ്റും ഇനി നമുക്ക് IS vs S പരിശോധിക്കണം അപ്പോൾ ഇവിടെ പ്രശ്നം വരുന്നില്ല ഇതിനും കൺകറൻറ്റ് ആയി പോകുവാൻ സാധിക്കും അപ്പോൾ ഇവിടെ പ്രശ്നം വരുന്നില്ല കാരണം ഇവ എല്ലാം IS S മോഡിൽ ആണ് പൊയിരിക്കുന്നത് ഇവിടെ സംഘർഷം വരുന്നില്ല അവ കോംപാറ്റിബിളും ആണ് ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണമായിട്ട് T 2 T3 എടുക്കാം T 2 വിൽ ആണെങ്കിൽ S IS IX മോഡാണ് വരുന്നത് T3 യിൽ ആണെങ്കിൽ S IS IX മോഡാണ് വരുന്നത് ഇനി കൺകറൻറ്റ് ആയി മുന്നോട്ടു പോകുവാൻ പറ്റുമോ നമുക്ക് ട ഉം IX ഉം തമ്മിൽ ഉള്ളത് പരിശോധിച്ചു നോക്കാം അത് നോ എന്നാണ് വരുന്നത് അതിനർത്ഥം ഇവക്ക് മുന്നോട്ടു പോകുവാൻ സാധിക്കുകയില്ല ഇവിടെ സംഘർഷം ഉണ്ടാകും അപ്പോൾ S ന് IX മായിട്ട് നിൽക്കുവാൻ പറ്റുകയില്ല അപ്പോൾ ഒരു ട്രാൻസാക്ഷന് f1 നെ പൂർണ്ണമായും വഹിക്കുവാൻ സാധിക്കുകയില്ല കാരണം അതിനകത്തുള്ള എന്തോ ഒന്ന് എക്സ്സിക്യൂട്ട് ആയിട്ടുണ്ട് ഇതിന് കൺകറന്റ് ആയി മുന്നോട്ടു പോകുവാൻ സാധിക്കുകയില്ല ഇത് കോംപാറ്റിബിൾ അല്ല T 2 ഉം T 3 ഉം കോംപാറ്റിബിൾ അല്ല നമുക്ക് ഇനി ഒരു ഉദാഹരണം കൂടി നോക്കാം T 2 ഉം T 4 ഉം അവക്ക് കൺകറൻറ്റ് ആയി മുന്നോട്ട് പോകുവാൻ പറ്റുമോ T 2 IX ൽ ആണ് ഇവിടെയും നേരത്തെ ഉണ്ടായിരുന്ന അതേ പ്രശ്നം വരുന്നു S സ്സും IX സ്സും തമ്മിൽ അപ്പോൾ ഇവക്കും കൺകറൻറ്റ് ആയി മുന്നോട്ടു പോകുവാൻ സാധിക്കുകയില്ല അതാണ് ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്നത് ഒരാൾ ലോക്ക് കോംപാറ്റിബിലിറ്റി മെട്രിക്സ് ഓർമ്മ വക്കുകയാണെങ്കിൽ ഇത് ചെയ്യുവാൻ പറ്റും ഇനി അത് ഓർമ്മിക്കുവാൻ പറ്റിയില്ലാ എന്നുണ്ടെങ്കിൽ അതിനെ വരച്ചു വച്ചാലും മതി ഇതിലൂടെ S എന്തുകൊണ്ടാണ് IX മായിട്ട് കോംപാറ്റിബിൾ അല്ലാതെ ആകുന്നത് എന്ന് മനസ്സിലാക്കുവാൻ എളുപ്പമാണ് കാരണം ഈ ഉദാഹരണത്തിൽ ഒരാൾ f1 നെ വായിക്കുകയാണെങ്കിൽ അതിൻറെ അർത്ഥം അത് എല്ലാം വായിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് a14 ഉൾപ്പെടെ അതുകൊണ്ടാണ് അതിന് S ലോക്ക് കിട്ടുന്നത് അതേ സമയം മറ്റ് ട്രാൻസാക്ഷൻ എഴുതുകയാണ് ഇതിൽ അവിടെ അപ്പോൾ എഴുത്തും വായനയും തമ്മിൽ സംഘർഷം ഉണ്ടാകും അതിനെ അനുവദിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്